വെയ്റ്റഡ് ഗ്രാഫു കളിലെ ഷോർട്ടസ്റ് പാത്ത് കൾക്കായി വൈവിധ്യമാർന്ന അൽഗോരിതം കണ്ട നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടിംഗിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു ഇതിനെ മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ എന്ന് വിളിക്കുന്നു പ്രചോദിപ്പിക്കുന്നതിന് ഇനിപ്പറയുന്ന ഉദാഹരണം നമുക്ക് പരിഗണിക്കാം നമ്മൾ റോഡ് ശൃംഖലയുള്ള ഒരു ജില്ലയിലാണെന്നും മോശം ചുഴലിക്കാറ്റിനു ശേഷം റോഡുകളെല്ലാം തകരാറിലാണെന്നും കരുതുക അതിനാൽ റോഡുകൾ പുനസ്ഥാപിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന അതിനാൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ദുരിതാശ്വാസങ്ങൾ അയയ്ക്കാനും ആളുകൾക്ക് വീണ്ടും സഞ്ചരിക്കാൻ കഴിയും അതിനാൽ എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകൾ പുനസ്ഥാപിക്കുക എന്നതാണ് മുൻഗണന അതിനാൽ റോഡ് പുനസ്ഥാപിക്കുന്നതിനുള്ള ആദ്യ മാനദണ്ഡം കണക്റ്റിവിറ്റി ഉറപ്പാക്കുക എന്നതാണ് അതിനാൽ ഏത് റോഡുകളാണ് സർക്കാർ ആദ്യം പുനസ്ഥാപിക്കേണ്ടത് മിനിമം കണക്റ്റിവിറ്റിയാണെങ്കിൽ ലൂപ്പ് സൃഷ്ടിക്കുന്ന റോഡുകൾ പുനസ്ഥാപിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വ്യക്തമാണ് ഉദാഹരണത്തിന് ഞങ്ങൾ ഈ നാല് റോഡുകളും പുനസ്ഥാപിക്കുന്നുവെന്ന് കരുതുക അപ്പോൾ ഈ റോഡുകളിലൊന്ന് ഇല്ലാതാക്കുന്നു എന്ന് കരുതുകഅതായത് 3 മുതൽ 4 വരെ അല്ലെങ്കിൽ 2 മുതൽ 3 വരെ ഉള്ള റോഡുകൾ എന്നിട്ടും ഒരാൾക്ക് ഈ നാല് പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നു നിന്ന് മറ്റ് നാല് പട്ടണങ്ങളിലേക്ക് പോകാം അതിനാൽ ഒരു ലൂപ്പിൽ നിന്ന് ഒരു എഡ്ജ് നീക്കംചെയ്യുന്നത് കൊണ്ട് ഒരു ഗ്രാഫ് വിച്ഛേദിക്കാൻ കഴിയില്ല ഈ ഗ്രാഫിനുള്ളിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന അരികുകളുടെ ചില സബ് സെറ്റുകൾ കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവ അത്തരത്തിൽ ഉള്ള ഏറ്റവും ചുരുങ്ങിയ എണ്ണം ആവുകയും വേണം ലൂപ്പു കളില്ലാത്തതും അസൈക്ലിക്ക് ആയതുമായ ഈ യഥാർത്ഥ ഗ്രാഫിന്റെ കണക്റ്റുചെയ്ത സബ് ഗ്രാഫ് ആണ് നമുക്ക് വേണ്ടത് ഇതിനെ ഒരു ട്രീ എന്ന് വിളിക്കുന്നു അതിനാൽ നിർവചനം അനുസരിച്ച് ട്രീ എന്നാൽ പരസ്പരം ബന്ധിപ്പിച്ച അസൈക്ലിക് ഗ്രാഫ് ആണ് നമ്മൾ ഒരു ആര്ബിട്രേറി ഗ്രാഫിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ഗ്രാഫിനുള്ളിൽ തന്നെ ഉള്ള ഒരു ട്രീ ഞങ്ങൾ തിരയുന്നു ഇത് അരികുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു സബ് ഗ്രാഫ് ആണ് ഇത് യഥാർത്ഥ ഗ്രാഫിലെ എല്ലാ വെർട്ടീസുകളെയും ബന്ധിപ്പിക്കുന്നു അതിനാൽ അത്തരമൊരു ട്രീ യെ സ്പാനിംഗ് ട്രീ എന്ന് വിളിക്കുന്നു ഇത് യഥാർത്ഥ ഗ്രാഫിന്റെ വെർട്ടീസുകളുമായി തുല്യമാണ് എന്നാൽ ഇത് അരികുകളുടെ ഉപ ഗണത്തിൽ നിന്ന് ഒരു ട്രീ സൃഷ്ടിക്കുന്നു ഗ്രാഫിൽ നമുക്ക് രൂപം കൊടുക്കാവുന്ന ഒരു ട്രീ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ചുവന്ന അരികുകൾ ഉള്ളതാണ് 1 മുതൽ 2 2 മുതൽ 3 3 മുതൽ 4 വരെ 4 മുതൽ 5 വരെ ഇതുപോലെ നമുക്ക് മറ്റൊരു സ്പാനിംഗ് ട്രീ രൂപപ്പെടുത്താം ഉദാഹരണത്തിന് ഇത് പച്ചയാണ് ഇത് 1 മുതൽ 3 വരെ 2 മുതൽ 3 വരെ 2 മുതൽ 5 വരെയും 4 മുതൽ 5 വരെയുമാണ് അതിനാൽ ഒരു നിശ്ചിത ഗ്രാഫിൽ ഒരാൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന നിരവധി സ്പാനിംഗ് ട്രീകളുണ്ട് ഉണ്ടെന്ന് കരുതുക ഈ ഉദാഹരണത്തിൽ ഇതു റോഡ് നന്നാക്കുന്നതിനുള്ള ചെലവ് ആകാം ഇപ്പോൾ കണക്റ്റിവിറ്റി പുനസ്ഥാപിക്കുക മാത്രമല്ല കുറഞ്ഞ ചെലവിൽ അത് ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് ഈ റോഡുകളുടെ ട്രീ നന്നാക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ ആകെ ചെലവ് 18 പ്ലസ് 6 24 പ്ലസ് 70 94 പ്ലസ് 20 114 ആണ് അതിനാൽ ഈ സ്പാനിംഗ് ട്രീ പുനസ്ഥാപിക്കാൻ ഉള്ള ചെലവ് 114 ആണ് മറുവശത്ത് സർക്കാർ പച്ച സ്പാനിംഗ് ട്രീ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ചെലവ് 10 പ്ലസ് 6 16 പ്ലസ് 20 36 ഉം പ്ലസ് 8 44 ആയി കുറയുന്നു അതിനാൽ വിവിധ സ്പാനിംഗ് ട്രീ ക്കു വ്യത്യസ്ത ചെലവ് ആയിരിക്കും ചെലവ് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം ഈ പ്രത്യേക ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഈ പച്ച ട്രീ പരിശോധിക്കുക ആണെങ്കിൽ ഇതിന്റെ ചെലവ്44 ആണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യേക ഗ്രാഫിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രീ ഇത് ആണ് സ്പാനിംഗ് ട്രീ അൽഗോരിതത്തി ലേക്ക് പോകുന്നതിന് മുമ്പ് ട്രീ കളെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വസ്തുതകൾ നോക്കാം നിർവചനം അനുസരിച്ച് ഒരു ട്രീ എന്നാൽ ബന്ധിപ്പിച്ച അസൈക്ലിക്ക് ഗ്രാഫാണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഗ്രാഫിന് പൊതുവേ n വെർട്ടിസെസ് ഉണ്ടാകും അതിനാൽ ഏത് ട്രീ ക്കും കൃത്യമായി n 1 എഡ്ജുകളുണ്ടെന്നാണ് അവകാശവാദം അതിനാൽ ഇത് തെളിയിക്കാൻ വളരെ എളുപ്പമാണ് അതിനു നിരവധി വ്യത്യസ്ത മാർഗങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഇതാണ് നമുക്ക് ഒരു ട്രീ ഉണ്ടെന്ന് കരുതുക തുടക്കത്തിൽ ട്രീ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ മുഴുവൻ ഗ്രാഫും പരസ്പരം ബന്ധപ്പെട്ട ഒരു ഘടകമായി മാറുന്നു നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് തുടങ്ങിയവ നോക്കുമ്പോൾ ഒരു നോഡ് എടുത്ത് അതിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാം നോക്കാമെന്നും അത് പരസ്പരം ബന്ധപ്പെട്ട ഘടകമായി മാറുന്നുവെന്നും ഞങ്ങൾ പറഞ്ഞു അതിനാൽ നമ്മൾ ഈ ഗ്രാഫിനെ മാത്രം പരിഗണിച്ചാൽ ട്രീ അതിനെ ഒരു കണ്ണെക്ടഡ് കംപോണേന്റ് ആയിട്ടു പരിഗണിക്കുന്നു എന്ന് കാണാം കാരണം ഇത് ഒരു ട്രീ ആണ് എനിക്ക് i മുതൽ j വരെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ മറ്റ് ചില എഡ്ജ്കളിലൂടെ i മുതൽ j വരെ പോകുന്ന മറ്റൊരു പാത ഉണ്ടാകരുത് കാരണം ആ പാതയും ഈ എഡ്ജ് ഉം ഒരു സൈക്കിൾ സൃഷ്ടിക്കും i മുതൽ j വരെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ഞാൻ അത് നീക്കംചെയ്യുന്നുവെങ്കിൽ നിർവചനം അനുസരിച്ച് i ഉം j ഉം വിച്ഛേദിക്കപ്പെടണം ഞാൻ ഒരു ഘടകവുമായി ആരംഭിച്ചെങ്കിൽ ഇപ്പോൾ എനിക്ക് രണ്ട് ഘടകങ്ങൾ ലഭിക്കുന്നു എന്റെ ട്രീയിൽ നിന്ന് ഒരു എഡ്ജ് ഞാൻ ഇല്ലാതാക്കുന്നുഅപ്പോൾ എനിക്ക് ഒരു ഘടകം കൂടി ലഭിക്കുന്നു ഇപ്പോൾ അതേ ആർഗ്യുമെൻറ് ഉപയോഗിച്ച് ഞാൻ ഒരു എഡ്ജ് കൂടി ഇല്ലാതാക്കുന്നു ഏത് എഡ്ജ് ഉൾക്കൊള്ളുന്നുവോ അത് വീണ്ടും വിഭജിക്കും അതിനാൽ ഓരോ തവണയും ഞാൻ ഒരു എഡ്ജ് ഇല്ലാതാക്കുമ്പോൾ എന്റെ പക്കലുള്ള ഘടകങ്ങളുടെ എണ്ണം വർദ്ധിക്കും പക്ഷേ അവസാനം എനിക്ക് ഒറ്റപ്പെട്ട n വെർട്ടീസുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പരമാവധി n ഘടകങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ എനിക്ക് n വെർട്ടിസെസ് ഉണ്ടെങ്കിൽ n ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാകരുത് അതായതു n 1 തവണ മാത്രമേ ഇതു ചെയ്യാൻ കഴിയൂ ഞാൻ ഒരു ട്രീ ഉപയോഗിച്ച് ആരംഭിക്കുന്നു എല്ലാം വിച്ഛേദിക്കപ്പെടുന്നതുവരെ ഞാൻ എഡ്ജ്കൾ ഇല്ലാതാക്കുന്നു എനിക്ക് ഇത് n 1 തവണ മാത്രമേ ചെയ്യാൻ കഴിയൂ എല്ലാം വിച്ഛേദിക്കപ്പെടുന്നതിനു ഞാൻ ഇത് n 1 തവണ ചെയ്യണം അതിനാൽ ട്രീ ക്കു കൃത്യമായി n 1 അരികുകൾ ഉണ്ടായിരിക്കണം അതിൽ ഒരു എഡ്ജ് ചേർത്താൽ അത് ഒരു സൈക്കിൾ സൃഷ്ടിക്കണം ഞങ്ങൾ ഇത് മുമ്പത്തെ വാദത്തിൽ ഇതിനകം കണ്ടു എനിക്ക് ഒരു ട്രീ ഉണ്ടെന്നും ഇത് ഇതുപോലെയാണെന്നും കരുതുക ഇത് ഒരു ഗ്രാഫ് ആണ് ഇതിന് കൂടുതൽ സൈക്കിൾ ഉണ്ട് പക്ഷേ ബ്രാഞ്ചുകളും ഉണ്ട് എവിടെയെങ്കിലും ഞാൻ ഒരു ട്രീ സൃഷ്ടിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ i ഉം j ഉം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു എഡ്ജ് ചേർക്കാൻ തീരുമാനിച്ചേക്കാം നമുക്കറിയാം ഇത് ഒരു ട്രീ ആയതിനാൽ ഇതിനകം ഒരു കണക്ഷൻ ഉണ്ട് i മുതൽ j വരെ ഒരു പാതയുണ്ട് എന്നു കരുതുക അതിനാൽ ആ പാത p പ്ലസ് ഈ എഡ്ജ് ഒരു അസൈക്ലിക്ക് രൂപപ്പെടുത്തുന്നു ഒരു ട്രീയിൽ എനിക്ക് കൃത്യമായി n 1 അരികുകളുണ്ട് ഞാൻ ഏതെങ്കിലും അധിക എഡ്ജ് ചേർക്കുമ്പോൾ ഏത് അരികിൽ ഞാൻ ചേർത്താലും അത് തീർച്ചയായും ഒരു സൈക്കിൾ ഉണ്ടാക്കും മറ്റൊരു അനന്തരഫലം ഏതെങ്കിലും രണ്ട് പാതകൾക്കിടയിൽ ഒരു ട്രീ ലെ രണ്ട് വെർട്ടിസെസ് കൾക്കിടയിൽ ഒരു യുണിക് പാത മാത്രമേ ഉണ്ടാകൂ എന്നതാണ് യഥാർത്ഥത്തിൽ രണ്ട് പാതകളുണ്ടെന്ന് കരുതുക അതിനാൽ നമുക്ക് രണ്ട് വെർട്ടെക്സ് നോക്കാം ഇവിടെ നമ്മൾ അവയെ i j എന്നിങ്ങനെ വരച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് കരുതുക ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അവിടെ രണ്ട് വ്യത്യസ്ത വഴികൾ ഉള്ളതിനാൽ അതിനിടയിൽ എവിടെയെങ്കിലും ചില ലൂപ്പുകൾ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമാണ് ഇത് i j എന്നിവയുൾപ്പെടെയുള്ള ഒരു ലൂപ്പ് ആയിരിക്കേണ്ടതില്ല അത് i നും j നും ഇടയിലായിരിക്കാം എന്നാൽ എല്ലാ കേസുകളും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയും ഒരു ലൂപ്പ് സൃഷ്ടിക്കാതെ i മുതൽ j വരെ രണ്ട് വ്യത്യസ്ത പാതകളുണ്ടാകാൻ ഒരു വഴിയുമില്ല ഞങ്ങൾക്ക് ഒരു ലൂപ്പ് ഉണ്ട് പിന്നെ ഗ്രാഫ് ഇനി അസൈക്ലിക്ക് അല്ല അതിനാൽ ഇത് ഒരു ട്രീ അല്ല ഇതാണ് നമ്മുടെ അനുമാനം ഉണ്ട് G കണ്ണെക്ടഡ് ആണ് G അസൈക്ലിക് ആണെന്നും G ക്ക് അരികുകളുണ്ടെന്നും ഞങ്ങൾ അവകാശപ്പെടുന്നു ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം മൂന്നാമത്തേതിനെ സൂചിപ്പിക്കുന്നു G കണ്ണെക്ടഡ് ആണ് G അസൈക്ലിക് ആണ് അതിനാൽ നിർവചനം അനുസരിച്ച് ഇത് ഒരു ട്രീ ആണ് ഏതൊരു ട്രീ ക്കും n 1 അരികുകളുണ്ടെന്ന ആദ്യ വാദങ്ങൾ ഞങ്ങൾ കാണിച്ചു അതിനാൽ ആദ്യ രണ്ടെണ്ണം മൂന്നാമത്തേതിനെ സൂചിപ്പിക്കുന്നു എന്നത് നമ്മൾ ഇതിനകം കണ്ടതാണ് G അസൈക്ലിക്ക് ആണെന്നും n 1 അരികുകളുണ്ടെന്നും ഒരു പ്രൂഫ് ഉപയോഗിച്ചു നിങ്ങളെ എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയും വാസ്തവത്തിൽ എല്ലാം എല്ലാവുമായി ബന്ധപ്പെട്ടിരിക്കണം അവസാനമായി G കണ്ണെക്ടഡ് ആണ് അതിന് n 1 അരികുകളുണ്ടെങ്കിൽ അത് അസൈക്ലിക്ക് ഗ്രാഫ് ആകാം അതിന് ലൂപ്പുകളൊന്നും ഉണ്ടാകരുത് അതിനാൽ ഏതെല്ലാം ട്രീ യെ നോക്കികാണാനുള്ള വിവിധ വഴികളാണ് ചിലപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ മറ്റൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ചേക്കാം അതിനാൽ പൊതുവായി tree കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ലക്ഷ്യം മിനിമം കോസ്റ് സ്പാനിങ് ട്രീ നിർമ്മിക്കുക എന്നതാണ് സ്വാഭാവികമായും അതിനു രണ്ട് തന്ത്രങ്ങളുണ്ട് ഒന്ന്ചെറിയ ഘട്ടത്തിൽ ആരംഭിച്ച് ട്രീ വർദ്ധിപ്പിക്കുക എന്നതാണ് അതിനാൽ നിലവിലുള്ള ട്രീയിലേക്ക് ഞങ്ങൾ അരികുകൾ ചേർക്കുന്നു അതുവഴി പുതിയ ഗ്രാഫ് ഒരു ട്രീ ആയി തുടരും മാത്രമല്ല കോസ്റ് കണക്കിലെടുത്ത് ഇത് കഴിയുന്നത്രയും വളരും ഇത് പ്രിംസ് അൽഗോരിതം prim's algorithm എന്ന് വിളിക്കുന്ന ഒരു അൽഗോരിതം ആണ് ഒരൊറ്റ ഉറവിടമുള്ള ഡിജെക്സട്രാ 'സ് ഷോർട്ടസ്റ് പാത്ത് അൽഗോരിതം Dijkstra's shortest path algorithm പോലെയും ഇത് മാറും കോസ്ററ് ആരോഹണ ക്രമത്തിൽ അരികുകൾ ചേർക്കുകയും ട്രീ പ്രോപ്പർട്ടീസ് ലംഘിക്കാതിരിക്കുന്നതുവരെ അവ ചേർക്കുന്നത് തുടരുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ മറ്റൊരു തന്ത്രം ഇപ്പോൾ ഇത് Prim's അൽഗോരിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഇവിടെ നമ്മൾ ട്രീ നിർമ്മിക്കുന്നില്ല പക്ഷേ ഒരു സൈക്കിൾ സൃഷ്ടിക്കാതിരിക്കാൻ അരികുകൾ ചേർക്കുന്നു എന്നാൽ അരികുകളുടെ വിച്ഛേദിച്ച ഗ്രൂപ്പുകൾ ഉണ്ടാകാം ഒടുവിൽ അവയെല്ലാം ബന്ധിപ്പിച്ചു ഒരു ട്രീ രൂപപ്പെടുത്താം അടുത്ത 2 ക്ലാസ്സുകളിൽ ഇവ കൂടുതൽ വിശദമായി ഞങ്ങൾ കാണും എന്നാൽ ഈ രണ്ട് തന്ത്രങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം നോക്കാം നമുക്ക് ഈ രണ്ട് അൽഗോരിതങ്ങളും അവബോധപൂർവ്വം നോക്കാം പിന്നീട് കൂടുതൽ വിശദമായി അവയിലേക്ക് വരും നമുക്ക് പ്രിംസ് അൽഗോരിതം ഉപയോഗിച്ച് ആരംഭിക്കാം ഏറ്റവും ചെറിയ വെയ്റ്റ് ഉള്ള എഡ്ജിൽ നിന്ന് ആരംഭിച്ച് ഒരു ട്രീ വളർത്തുക എന്നതാണ് പ്രിംസ് അൽഗോരിതത്തിലെ തന്ത്രമെന്ന് ഓർമ്മിക്കുക അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ എഡ്ജ് ഉപയോഗിച്ച് ആരംഭിക്കുന്നു അത് 2 നും 3 നും ഇടയിലുള്ള വെയ്റ്റ് 6 ആയ എഡ്ജ് ആണ് ഇപ്പോൾ ഗ്രാഫിന്റെ ഈ ഭാഗം ഉൾക്കൊള്ളുന്ന നിലവിലുള്ള ട്രീ നോക്കേണ്ടതുണ്ട് ഒപ്പം ട്രീ വിപുലീകരിക്കാൻ ഈ നാല് അരികുകളിൽ ഒന്ന് ചേർക്കണമോ എന്ന് തീരുമാനിക്കണം നമുക്ക് ആ എഡ്ജ് ഇവിടെ ചേർക്കാൻ കഴിയില്ല നമുക്ക് ഈ എഡ്ജ് ചേർക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഒരു ട്രീ രൂപപ്പെടില്ല ഇവ ഈ അരികുകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും അതിനാൽ ഇവയിലേതെങ്കിലും ചേർക്കാൻ നമുക്ക് കഴിയും എന്നാൽ അതിൽ ഏറ്റവും ചെറിയത് തിരഞ്ഞെടുക്കുന്നു ഈ സാഹചര്യത്തിൽ വെയ്റ്റ് 10 ഉള്ള എഡ്ജ് തിരഞ്ഞെടുക്കുന്നു അരികുകൾ 1 2 ട്രീ യോട് ചേർക്കുക എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ട്രീ ഉണ്ട് നമുക്ക് ചേർക്കാൻ കഴിയുന്ന എഡ്ജസ് നോക്കിയാൽ നമുക്ക് ഈ എഡ്ജ് ഉണ്ട് ഈ എഡ്ജ് ഉണ്ട് ഈ എഡ്ജ് ഉണ്ട് ഇവയിൽ ഏറ്റവും ചെറിയ വെയ്റ്റ് ഉള്ള എഡ്ജ് 18 ആണ് പക്ഷേ ഞാൻ അത് ചേർത്താൽ നമുക്ക് ഒരു സൈക്കിൾ ലഭിക്കും അതിനാൽ ഈ എഡ്ജ് ചേർക്കാൻ കഴിയില്ല ചെറുത് തിരഞ്ഞെടുക്കുന്നതിന് മറ്റ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം ഈ സാഹചര്യത്തിൽ വെയ്റ്റ് 20 എന്ന് ലേബൽ ചെയ്തിട്ടുള്ള എഡ്ജ് ആണത് ഈ ആകൃതിയിലുള്ള ട്രീ നമുക്ക് ലഭിക്കുന്നു ഇതാണ് തന്നിരിക്കുന്ന ട്രീ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇത് ചേർക്കാൻ കഴിയില്ല അതിനാൽ നമുക്ക് 70 അല്ലെങ്കിൽ 8 എന്ന് ലേബൽ ചെയ്തിട്ടുള്ള അരികുകൾ ചേർക്കാം തീർച്ചയായും 8 ആണ് ചെറുത് ചേർക്കുന്നു ഇതാണ് നമുക്ക് ലഭിക്കുന്ന ട്രീ പ്രിംസ് അൽഗോരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസാന ട്രീ ആണിത് നമുക്ക് ഏറ്റവും ചെറിയ എഡ്ജിൽ നിന്ന് ആരംഭിച്ച് ട്രീ ഉണ്ടാക്കിയെടുക്കാം ആരോഹണ ക്രമത്തിൽ അരികുകളിൽ ആരംഭിക്കുക എന്നതാണ് മറ്റൊരു തന്ത്രം നമ്മൾ 6 പിന്നെ 8 എന്നിവ ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഇത് ആദ്യത്തേതാണ് ഇത് രണ്ടാമത്തേതും ഇത് മൂന്നാമത്തേതും മറ്റും അതിനാൽ ഈ ക്രമത്തിൽ 1 2 3 4 5 6 എന്നീ അരികുകൾ ഞങ്ങൾ പരിഗണിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് 18 20 പിന്നീട് 70 എന്നിങ്ങനെ വെയ്റ്റ്സ് ഉണ്ട് അതിനാൽ ഈ ക്രമത്തിൽ പരിഗണിക്കുമ്പോൾ നമുക്ക് 6 എഡ്ജുകളും ഇവയിൽ ഏറ്റവും ചെറുത് 6 ആണ് അതിനാൽ അത് ചേർക്കുന്നു ആദ്യ ഭാഗം അടുത്തത് 8 ആണ് ഇത് ഒരു സൈക്കിൾ സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് ഇതു ട്രീ പ്രോപ്പർട്ടി ലംഘിക്കുന്നില്ല അതിനാൽ ഞങ്ങൾ അതും ചേർക്കുന്നു ഈ സമയത്ത് പ്രിംസ് ൻറെയും Kruskal ന്റെയും അൽഗോരിതം തമ്മിലുള്ള നിർണായക വ്യത്യാസം ശ്രദ്ധിക്കുക എവിടെ നമ്മൾക്കു ഒരു ട്രീ ഇല്ല ചില അർത്ഥത്തിൽ ഞങ്ങൾക്ക് രണ്ട് വ്യത്യസ്ഥ ട്രീ കളുണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ലാത്ത രണ്ട് വ്യത്യസ്ത അസൈക്ലിക് ഘടകങ്ങൾ ഈ ഗ്രാഫിനുള്ളിൽ ഉണ്ടാവാം പക്ഷെ ഞങ്ങൾ അരികുകൾ ഓർഡർ ചെയ്യാൻ പോകുന്നു അടുത്തതായി നമുക്ക് ചേർക്കാൻ കഴിയുന്ന എഡ്ജ് 10 ആണെന്ന് കാണാം ഇത് ഒരു സൈക്കിൾ സൃഷ്ടിക്കുന്നില്ല അതിനാൽ നമ്മൾ അത് ചേർക്കുന്നു അതായത് ഈ ഭാഗം വളർന്നു എന്നാൽ ആ ഭാഗത്തിനു അതിനു സാധിച്ചില്ല അടുത്തത് 18 ആയിരിക്കും എന്നാൽ നിങ്ങൾ 18 ചേർക്കുകയാണെങ്കിൽ അത് ഒരു സൈക്കിൾ ഉണ്ടാക്കും അതിനാൽ 18 ഒഴിവാക്കി അടുത്തതിലേക്ക് നീങ്ങുന്നു ഇത് 20 ആണ് 20 വാസ്തവത്തിൽ രണ്ട് ഘടകങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ട്രീ ഉണ്ടാക്കും അതിനാൽ 20 ചേർക്കുന്നു ഞങ്ങൾ n 1 എഡ്ജസ് ചേർത്തു അത് പൂർത്തിയാക്കി ഇവിടെ അഞ്ച് വെർട്ടിസെസ് ഉണ്ട് 4 എഡ്ജുകളും ലഭിച്ചു അതിനാൽ ഞങ്ങൾക്ക് തീർച്ചയായും ഒരു ട്രീ ലഭിക്കുന്നു